അതിനാൽ നമ്മൾ ഇപ്പോൾ പ്ലേസ്മെന്റ് പ്രശ്നം പരിഗണിക്കുന്നു ഇപ്പോൾ ഘട്ടങ്ങളുടെ ക്രമത്തിൽ ഫിസിക്കൽ ഡിസൈൻ ഓട്ടോമേഷൻ സൈക്കിളിൽ പാർട്ടീഷനിംഗിന് ശേഷം ഫ്ലോർ പ്ലാനിംഗും പിൻ അസൈൻമെന്റും തുടർന്ന് പ്ലേസ്മെന്റും വരുന്നു ശരി അർത്ഥമാക്കുന്നത് നിശ്ചിത ഡിസൈൻ ശൈലികളാണെന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ടെങ്കിലും അതുപോലെ തന്നെ സാധാരണ സെല്ലുകളോ ഗേറ്റ് അറേകളോ ഫ്ലോർ പ്ലാനിംഗും പ്ലെയ്സ്മെന്റും വളരെ വ്യത്യസ്തമല്ല അവ ഒരുമിച്ച് ലയിപ്പിക്കാൻ കഴിയും പക്ഷേ ഈ ഘട്ടങ്ങളിൽ ഫുൾ കസ്റ്റം സ്റ്റൈൽ നമ്മൾ പിന്തുടരേണ്ടതുണ്ട് അതിനാൽ ഈ പ്രഭാഷണത്തിൽ പ്ലേസ്മെന്റ് പ്രശ്നത്തെക്കുറിച്ചുള്ള നമ്മുടെ ചർച്ച ആരംഭിക്കുന്നു അതിനാൽ ഞാൻ പറഞ്ഞതുപോലെ ഇത് ഏറ്റവും പ്രധാനപ്പെട്ട ഘട്ടങ്ങളിലൊന്നാണ് കാരണം ഇത് വളരെ വലുതാണ് ചിപ്പിന്റെ മൊത്തത്തിലുള്ള പ്രകടനത്തിലും വിലയിലും നിങ്ങൾക്ക് സ്വാധീനം പറയാൻ കഴിയും കാരണം ഇന്നത്തെ ചിപ്പിൽ നിങ്ങൾ കാണുന്നതിനാൽ ഘടകങ്ങളുടെ സാന്ദ്രത ഒരു ചിപ്പിൽ നിങ്ങൾക്ക് പായ്ക്ക് ചെയ്യാൻ കഴിയുന്ന ഘടകങ്ങളുടെ എണ്ണം അനുദിനം വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണെന്ന് നിങ്ങൾക്കറിയാം ഇന്ന് നിങ്ങൾക്ക് ഒരു ചിപ്പിൽ കോടിക്കണക്കിന് ട്രാൻസിസ്റ്ററുകൾ പായ്ക്ക് ചെയ്യാൻ കഴിയും ഒരു ചിപ്പിനുള്ളിലെ ഈ സർക്യൂട്ടുകളുടെ ഈ സ്റ്റാൻഡേർഡ് ലേഔട്ട് നിങ്ങൾ നോക്കിയാൽ സാധാരണ ലോജിക് അല്ലെങ്കിൽ പ്രോസസർ ചിപ്പുകളുമായി താരതമ്യപ്പെടുത്തുമ്പോൾ ഈ മെമ്മറി ചിപ്പുകൾ പലപ്പോഴും കൂടുതൽ സാന്ദ്രതയുള്ളതിനാൽ മൊത്തം വിസ്തൃതിയുടെ ഗണ്യമായ ശതമാനം പരസ്പരബന്ധങ്ങൾ ഉൾക്കൊള്ളുന്നുവെന്ന് നിങ്ങൾ കണ്ടെത്തും കാരണം മെമ്മറി സെല്ലുകളിൽ ലേഔട്ട് വളരെ പതിവായി പരസ്പരബന്ധങ്ങൾ വളരെ വ്യക്തമാണ് അതിനാൽ നിങ്ങളുടെ പ്ലെയ്സ്മെന്റ് നല്ലതല്ലെങ്കിൽ നിങ്ങളുടെ ഇന്റർകണക്ഷൻ പ്രശ്നം ഇന്റർകണക്ഷൻ ചെലവ് വർദ്ധിക്കും അത് എ ആയി വർദ്ധിച്ചേക്കാം ഞാൻ അർത്ഥമാക്കുന്നത് ഇന്റർ കണക്ഷനുകളുടെ വില വർദ്ധിപ്പിക്കും അതിന്റെ ഫലമായി ചിപ്പിന്റെ വിലയും അതിനാൽ പ്ലേസ്മെന്റ് പ്രശ്നം പ്രധാനമാണ് നിങ്ങളുടെ പ്ലേസ്മെന്റ് മോശമാണെങ്കിൽ ഏരിയ ആവശ്യകത വലുതായിരിക്കാം ഏരിയ വലുതാണെങ്കിൽ ചില നിർണായക ഭാഗങ്ങൾ ദൈർഘ്യത്തിൽ വർദ്ധിക്കുകയും ചെയ്യാം ഇത് പ്രകടനത്തിന്റെ അപചയത്തിന് കാരണമായേക്കാം അതിനാൽ അടിസ്ഥാനപരമായി പ്ലേസ്മെന്റ് പറയുന്നു ലേഔട്ട് ഉപരിതലത്തിൽ ഒരു കൂട്ടം മൊഡ്യൂളുകൾ എങ്ങനെ ക്രമീകരിക്കാം ഈ ഘട്ടത്തിൽ മൊഡ്യൂളുകൾക്ക് നിശ്ചിത രൂപങ്ങളും നിശ്ചിത പിൻ സ്ഥാനങ്ങളും ഉണ്ടെന്ന് നമ്മൾ അനുമാനിക്കുന്നു അതിനാൽ ഫ്ലോർ ആസൂത്രണത്തിന്റെയും പിൻ അസൈൻമെന്റുകളുടെയും ഘട്ടങ്ങൾ ഇതിനകം പൂർത്തിയായിട്ടുണ്ട് ഇപ്പോൾ നിങ്ങൾക്ക് നിശ്ചിത ആകൃതിയും നിശ്ചിത സ്ഥലങ്ങളും ഉള്ള മൊഡ്യൂളുകൾ ഉണ്ട് എന്നിരുന്നാലും IO പാഡുകൾ പോലുള്ള മുൻകൂട്ടി നിശ്ചയിച്ചിട്ടുള്ള ചില മൊഡ്യൂളുകൾ ഉണ്ട് നിങ്ങൾ കാണുന്നതുപോലെ ഞാൻ നിങ്ങളെ കാണിക്കുന്നു ഇത് ഒരു ചിപ്പിന്റെ സാധാരണ ലേ ഔട്ട് ആണെന്ന് കരുതുക അതിനാൽ ഇപ്പോൾ സാധാരണയായി 4 വശങ്ങളിൽ നിന്നും പിൻസ് എടുക്കുന്നു അതിനാൽ ഇൻപുട്ട് ഔട്ട്പുട്ട് പാഡുകൾ ഇൻപുട്ട് ഔട്ട്പുട്ട് സിഗ്നൽ ലൈനുകൾ ഓടിക്കാൻ ഉപയോഗിക്കുന്ന ഡെഡിക്കേറ്റഡ് സർക്യൂട്ട് ആണ് ഇപ്പോൾ ഈ IO പാഡുകൾ ബാഹ്യ പിന്നുകളോട് ചേർന്നാണ് സ്ഥിതി ചെയ്യുന്നത് ഇപ്പോൾ ഈ ചിപ്പിന്റെ പിന്നുകൾ ശരിയാക്കുന്നതിനാൽ IO പാഡുകളുടെ സ്ഥാനവും പരിഹരിക്കപ്പെടും അതിനാൽ സ്ഥാനങ്ങൾ മുൻകൂട്ടി നിശ്ചയിച്ചിട്ടുള്ള ചില ബ്ലോക്കുകളാണിത് എന്നാൽ അതിനുള്ളിൽ ലഭ്യമായ ലേഔട്ട് ഏരിയയ്ക്കുള്ളിൽ ഇവിടെ നിങ്ങൾക്ക് എല്ലാ ബ്ലോക്കുകളും സ്ഥാപിക്കാൻ കഴിയും ഫുൾ കസ്റ്റത്തിൽ വലുപ്പത്തിലുള്ള ബ്ലോക്കുകൾ ഏത് ആകൃതിയിലും വലുപ്പത്തിലും ആകാം സാധ്യമായ എല്ലാ ആകൃതികളും വലുപ്പങ്ങളും നിങ്ങൾക്ക് ഉണ്ടാകും അതിനാൽ നിങ്ങൾക്ക് ഇതുപോലൊന്ന് ഉണ്ടായിരിക്കാം അതിനാൽ പ്ലേസ്മെന്റ് പ്രശ്നം സംസാരിക്കുന്നത് ഇതാണ് ഇപ്പോൾ ഞാൻ പറഞ്ഞതുപോലെ ഇന്റർകണക്ഷനുകൾക്ക് ഇടയിൽ നിങ്ങൾക്ക് കുറച്ച് ഇടം ചേർക്കാനും കഴിയും അതിനർത്ഥം നിങ്ങൾക്ക് എത്ര സ്ഥലം ആവശ്യമാണെന്ന് അറിയേണ്ടതുണ്ട് അല്ലെങ്കിൽ പരസ്പരബന്ധങ്ങളുടെ കോംപ്ലക്സിറ്റി എന്താണ് സാധ്യമായ 2 പ്ലെയ്സ്മെന്റുകളുമായി ബന്ധപ്പെട്ട് വയർ ലെങ്ങ്തിന്റെ സ്വാധീനം കാണിക്കുന്ന ഒരു ഉദാഹരണം നമുക്ക് ഇവിടെ എടുക്കാം 8 ഗേറ്റുകൾ കാണിക്കുന്ന വളരെ ലളിതമായ ഉദാഹരണമാണ് ഇവ ഓരോ ഗേറ്റും OR മൊഡ്യൂളിനെ പ്രതിനിധാനം ചെയ്യുന്നു അതിനാൽ 8 മൊഡ്യൂളുകൾ ഉണ്ട് ഞാൻ ഇത് പോലെ മൊഡ്യൂളുകൾ സ്ഥാപിക്കുകയാണെങ്കിൽ ഈ സംഖ്യകൾ ഗേറ്റ് നമ്പറുകളെ സൂചിപ്പിക്കുന്നു അതിനാൽ 1 5 ലേക്ക് കണക്റ്റുചെയ്തത് കാണുന്നു അതിനാൽ 1 ഇത് ബന്ധിപ്പിക്കേണ്ടതുണ്ട് 5 ന് 3 കണക്ഷനുകൾ ഉണ്ട് അതിനാൽ 1 ഇവിടെ കണക്റ്റുചെയ്തു 2 5 ഉം 5 7 ഉം ആയി ബന്ധിപ്പിച്ചിരിക്കുന്നു അതിനാൽ പരസ്പരം ബന്ധിപ്പിക്കുന്നതിന് 3 പിന്നുകൾ ഉണ്ട് അതിനാൽ ഇവ ദൃഡ്ഡമായ ഡോട്ടുകൾ പരസ്പരബന്ധങ്ങൾ എന്നിവയാൽ കാണിക്കുന്നു അതിനാൽ സമാനമായി പറയുക 3 നെ 6 ലേക്ക് ബന്ധിപ്പിച്ചിരിക്കുന്നു 4 നെ 6 ലേക്ക് ബന്ധിപ്പിച്ചിരിക്കുന്നു 6 നെ 7 ലേക്കും 7 നെ 8 ലേക്കും ബന്ധിപ്പിച്ചിരിക്കുന്നു അതിനാൽ നിങ്ങൾ ഇവിടെ വയർ ലെങ്ത് കണക്കാക്കുകയാണെങ്കിൽ അത് 10 വരും അതിനാൽ ഞാൻ എങ്ങനെ കണക്കുകൂട്ടി അടുത്തുള്ള സെല്ലുകളുടെ കോസ്ററ് 1 ആണെന്ന് ഞാൻ അനുമാനിക്കുന്നത് നിങ്ങൾ കാണുന്നു അതിനാൽ ഈ മെറ്റലിന്റെ വില 1 പ്ലസ് 1 2 3 4 5 6 7 8 9 ഉം 10 ഉം 10 ആകും എന്റെ പ്ലേസ്മെന്റ് ഇങ്ങനെയായിരുന്നുവെന്ന് കരുതുക ഇവിടെ ബ്ലോക്ക് 5 ഇവിടെ 6 ഇവിടെ 8 ഇവിടെ 4 2 7 ഇതുപോലെ അതിനാൽ എന്റെ നെറ്റ് ലിസ്റ്റുമായി ബന്ധപ്പെട്ട പരസ്പരബന്ധങ്ങൾ ഇതുപോലെയായിരിക്കും അതിനാൽ ഇപ്പോൾ നിങ്ങൾ വയർ ലെങ്ത് കണക്കാക്കുകയാണെങ്കിൽ അത് 1 2 3 4 5 6 7 8 9 10 11 12 ആയിരിക്കുമെന്ന് ഞാൻ കരുതുന്നു അതിനാൽ അത് 12 ആയിത്തീരുന്നു അതിനാൽ പ്ലെയ്സ്മെന്റ് അനുസരിച്ച് നിങ്ങളുടെ വയർ ലെങ്ത് വർദ്ധിച്ചേക്കാം അതിനാൽ പ്ലെയ്സ്മെന്റിന്റെ പ്രധാന ലക്ഷ്യങ്ങളിലൊന്ന് മൊത്തത്തിലുള്ള വയർ ലെങ്ത് കുറയ്ക്കുക എന്നതാകാം കാരണം ഒരു അവബോധജന്യമായ വാദം നിങ്ങൾക്ക് നൽകാം മൊത്തത്തിലുള്ള വയർ ലെങ്ത് ഞാൻ കുറച്ചാൽ എന്റെ സർക്യൂട്ടിന്റെ പ്രകടനവും മെച്ചപ്പെടുമെന്ന് പ്രതീക്ഷിക്കുന്നു മിക്കപ്പോഴും ഇത് ശരിയാണ് പക്ഷേ ഒഴിവാക്കൽ സാഹചര്യങ്ങളുണ്ടാകാം നിങ്ങളുടെ വയർ ലെങ്ത് കുറയുന്നു പക്ഷേ നിങ്ങളുടെ ക്രിട്ടിക്കൽ ലെങ്ത് നീട്ടിക്കൊണ്ടിരിക്കും അത് എക്സ്ട്രീം കേസ് ആയിരിക്കും റൂട്ടബിലിറ്റിയുടെ കാര്യത്തിൽ നമുക്ക് എടുക്കാം അതിനാൽ ഇവിടെ നമ്മൾ ഒരു സ്റ്റാൻഡേർഡ് സെൽ പ്ലെയ്സ്മെന്റ് പരിഗണിക്കുന്നു പക്ഷേ പരസ്പരം ബന്ധിപ്പിക്കുന്നതിന് നമുക്ക് എത്ര ട്രാക്കുകൾ ആവശ്യമാണെന്ന് നമ്മൾ കണക്കാക്കുന്നു അതിനാൽ വീണ്ടും അതേ ഉദാഹരണം 8 ബ്ലോക്കുകൾ ഉണ്ട് ചില പരസ്പരബന്ധങ്ങൾ ഉണ്ട് എന്റെ കണക്ഷനുകൾ ഇങ്ങനെയാണെന്ന് കരുതുക ഡി ബ്ലോക്കിൽ നിന്ന് എനിക്ക് ജി ബ്ലോക്കിലേക്ക് ഒരു ബന്ധമുണ്ട് ബി മുതൽ ഇ ബി എഫ് ബി എച്ച് സി മുതൽ എച്ച് വരെ അതിനാൽ എനിക്ക് ഇതുപോലുള്ള ഒരു കണക്ഷൻ ഉണ്ടെങ്കിൽ എന്റെ എല്ലാ കണക്ഷനുകളും നിങ്ങൾക്ക് ഇവിടെ കാണാനാകുന്നതുപോലെ ഞാൻ ഉണ്ടാക്കുന്ന ഒരു അനുമാനം ഒരു ചാനലിൽ ഇത് ചാനൽ റൂട്ടിംഗ് പോലെയാണ് എന്ന അനുമാനം ഞാൻ ഉൾക്കൊള്ളുന്നു അതിനാൽ ഞാൻ കണക്ഷനുകൾ റൂട്ട് ചെയ്യുമ്പോഴെല്ലാം ഞാൻ വിശദീകരിക്കട്ടെ മെറ്റലിന്റെ 2 ലയറുകളുണ്ടെന്ന് ഞാൻ അനുമാനിക്കുന്നു അതിനാൽ എനിക്ക് ഒരു ക്രോസ് സെക്ഷണൽ വ്യൂ ഉണ്ടെങ്കിൽ അതിനാൽ ഒരു ക്രോസ് സെക്ഷണൽ വ്യൂ ൽ ഇത് ഒരു മെറ്റൽ സർഫേസ് ആകാം ഇത് മറ്റൊരു മെറ്റൽ സർഫേസ് ആകാം അതിനിടയിൽ ഒരു തരം ഇൻസുലേറ്റിംഗ് മെറ്റീരിയൽ ഉണ്ടാകും അതിനാൽ അവ പരസ്പരം സ്പർശിക്കുന്നില്ല അവ 2 വ്യത്യസ്ത പാളികളിലാണ് അതിനാൽ 2 മെറ്റൽ ലയറുകൾ അല്ലെങ്കിൽ 2 വ്യത്യസ്ത ലിസ്റ്റ് അതിനാൽ ഒരു കൺവെൻഷൻ എന്ന നിലയിൽ എനിക്ക് ലെയറുകളിൽ ഒന്നിൽ എല്ലാ ഹൊറിസോണ്ടൽ ലൈനുകളും മറ്റേ ലെയറിലെ എല്ലാ വെർട്ടിക്കൽ ലൈനുകളും പ്രവർത്തിപ്പിക്കാൻ കഴിയും എനിക്ക് ഒരു കണക്ഷൻ ഉണ്ടാക്കേണ്ടിവരുമ്പോൾ ഞാൻ ഒരു വയർ കണക്ഷൻ വയർ കോൺടാക്റ്റ് എന്ന് വിളിക്കുന്നു ഇതുപോലെ കാണാൻ വയർ കോൺടാക്റ്റ് ഈ പാളിയിൽ നിന്ന് ഈ പാളിയിലേക്ക് എനിക്ക് ആവശ്യമുള്ളപ്പോഴെല്ലാം ഞാൻ ഡ്രിൽ ചെയ്യുന്നു ഇപ്പോൾ ഞാൻ ഒരു ടോപ് വ്യൂ കാണിക്കുന്നു ഒരു ടോപ് വ്യൂ ൽ അതിനാൽ എനിക്ക് ആവശ്യമുള്ളപ്പോഴെല്ലാം ഞാൻ മുഴുവൻ ഡ്രിൽ ചെയ്യുന്നു ഈ 2 പാളികൾക്കിടയിൽ ഞാൻ മെറ്റൽ ഇടുന്നു അതിനാൽ ഇതുപോലുള്ള ഒരു ബന്ധമുണ്ട് ശരി അതിനാൽ ഈ ഡയഗ്രാമിൽ നിങ്ങൾ കാണുകയാണെങ്കിൽ ഒരേ കൺവെൻഷൻ പിന്തുടരുക ഹൊറിസോണ്ടലും വെർട്ടിക്കലുമായ വരികൾ 2 വ്യത്യസ്ത പാളികളിലായിരിക്കും അങ്ങനെ ചില വരികൾ മുറിച്ചുകടന്നാലും ഷോർട്ട് സർക്യൂട്ട് ഉണ്ടാകില്ല കാരണം വെർട്ടിക്കൽ ലൈൻസ് ഒരു ലെയറിലാണ് ഹൊറിസോണ്ടൽ ലൈൻ മറ്റൊരു ലെയറിൽ കണക്ഷനുകൾ ജംഗ്ഷനിൽ മാത്രമാണ് ഹൊറിസോണ്ടലും വെർട്ടിക്കലുമായ ഭാഗങ്ങൾ പരസ്പരം കണ്ടുമുട്ടുന്നിടത്തെല്ലാം ഇപ്പോൾ ഈ പരിഹാരത്തിൽ എനിക്ക് 2 ട്രാക്കുകൾ മാത്രമേ ആവശ്യമുള്ളൂ എന്ന് നിങ്ങൾക്ക് കാണാൻ കഴിയും ട്രാക്കുകളുടെ അടിസ്ഥാനത്തിൽ നിങ്ങൾക്ക് അളക്കാൻ കഴിയുന്ന മൊത്തം റൂട്ടിംഗ് ഏരിയ റൂട്ട് ചെയ്യുന്നതിന് എനിക്ക് 2 ട്രാക്കുകൾ വേണം എന്നാൽ ഞാൻ അവയെ അല്പം വ്യത്യസ്തമായ രീതിയിൽ നീക്കിയാൽ നിങ്ങൾക്ക് അത് കാണാൻ കഴിയും ഇപ്പോൾ എന്റെ വയർ ലെങ്ത് വളരെ കുറവാണ് ഇവിടെ എന്റെ വയർ ലെങ്ത് വളരെ കൂടുതലാണ് ചില വയറുകൾ ദൈർഘ്യമേറിയതാണ് എന്നാൽ ഇവിടെ എന്റെ വയർ ലെങ്ത് വ്യക്തമായി ചെറുതാണ് പക്ഷേ ഞാൻ ഇത് ഇതിനകം 2 ലെയറുകളിൽ സ്ഥാപിച്ചിട്ടുണ്ട് എന്നാൽ ഈ മൂന്നാമത്തെ വരി ബന്ധിപ്പിക്കാൻ എനിക്ക് ആവശ്യമാണ് മൂന്നാമത്തെ പാളി എനിക്ക് 2 ലെയറുകളിൽ ചെയ്യാൻ കഴിയില്ല അല്ലാത്തപക്ഷം അവ ഇവിടെ ഒരു ഷോർട്ട് സർക്യൂട്ട് ആയിരിക്കും അവയെ ബന്ധിപ്പിക്കാൻ എനിക്ക് മറ്റൊരു മൂന്നാമത്തെ ലെയറുവേണം അതിനാൽ ഈ വയർ ലെങ്തും ട്രാക്കുകളുടെ എണ്ണവും ഒരുതരം വൈരുദ്ധ്യപരമായ ആവശ്യകതയാണ് വയർ ലെങ്ത് എല്ലായ്പ്പോഴും ആവശ്യമില്ല എന്നതിനർത്ഥം നിങ്ങളുടെ മൊത്തം റൂട്ടിംഗ് ഏരിയ ചെറുതാണെന്നാണ് ട്രാക്കുകൾ അർത്ഥമാക്കുന്നത് ട്രാക്കുകൾ കുറയ്ക്കുന്നത് എന്നത് ലേ ഔട്ടിനുള്ള ചെറിയ പ്രദേശം എന്നാണ് എന്നാൽ വയറുകൾ വർദ്ധിക്കുന്നത് വയർ ദൈർഘ്യം ഡിലെ വർദ്ധിക്കുന്നതായി അർത്ഥമാക്കാം അതിനാൽ നിങ്ങൾ രണ്ടും തമ്മിലുള്ള ഒരു ബാലൻസ് ഉണ്ടാക്കണം ശരി ഇപ്പോൾ ഇതൊരു രസകരമായ ഡയഗ്രമാണ് ഇത് ഒരു ഉദാഹരണ സർക്യൂട്ടിനുള്ള ഡയഗ്രമുകളാണ് ഇത് യഥാർത്ഥത്തിൽ ബെഞ്ച് മാർക്ക് സർക്യൂട്ട് ആണ് ഈ ബി കാണുന്നില്ല ഇതിനെ e64 എന്ന് വിളിക്കുന്നു ഈ e64 ഒരു FPGA യിലേക്കുള്ള മാപ്പായിരുന്നു അവിടെ 230 ലുക്ക് അപ്പ് ടേബിൾസ് യൂസ് ചെയ്യുന്നു അതിനാൽ ഒരു നേർരേഖ വരച്ച കണക്ഷനുകൾ മാപ്പ് ചെയ്തതിനുശേഷം ഇത് മെഷ് ഡയഗ്രം സിഗ്സാഗ് ഡയഗ്രം അത് ശരിക്കും അഗ്ലി ആയി കാണപ്പെടുന്നു ഇത് റാൻഡം ഇനിഷ്യൽ പ്ലേസ്മെന്റുമായി ബന്ധപ്പെട്ടതായിരുന്നു എന്നാൽ നിങ്ങൾ ഒരു നല്ല പ്ലെയ്സ്മെന്റ് ചെയ്തുകഴിഞ്ഞാൽ നിങ്ങൾ അത് വീണ്ടും വരച്ചാൽ അത് വളരെ ഭംഗിയായി കാണപ്പെടുന്നു മിക്ക കണക്ഷനുകളും പ്രാദേശികമാണ് വളരെ അല്ല ചിപ്പിന്റെ ഒരു മൂലയിൽ നിന്ന് മറ്റൊന്നിലേക്കും വിശദമായ റൂട്ടിംഗിന് ശേഷവുമല്ല അതിനാൽ വിശദമായ റൂട്ടിംഗിന് ശേഷം നേർരേഖകൾ വരച്ചുകൊണ്ട് മാത്രമാണ് ഇത് കണക്ഷനുകൾ ഇതുപോലെ കാണപ്പെടുന്നു ഇത് കൂടുതൽ ശുദ്ധമാണ് ഒരു നല്ല പ്ലെയ്സ്മെന്റ് വളരെ നേർത്ത നെറ്റ്വർക്കിലേക്ക് വളരെ ചെറിയ വയർ ദൈർഘ്യത്തിലേക്ക് നയിക്കുമെന്നതിന് ഒരു ഉദാഹരണം മാത്രം ഇപ്പോൾ പ്ലേസ്മെന്റ് പ്രശ്നത്തിലേക്ക് വരുന്നു അതിനാൽ ഇൻപുട്ട് നന്നായി നിർവ്വചിച്ചിരിക്കുന്ന ആകൃതിയിലുള്ള ഒരു കൂട്ടം മൊഡ്യൂളുകളാണ് അതിനാൽ ഇവിടെ അവയൊന്നും ഫ്ലെക്സിബിൾ അല്ല ഫ്ലോർ പ്ലാനിംഗ് പോലെ ചില ബ്ലോക്കുകൾ അവയുടെ ഉയരത്തിന്റെയും വീതിയുടെയും കാര്യത്തിൽ വഴക്കമുള്ളതാണെന്ന് നമ്മൾ പറഞ്ഞിരുന്നു എന്നാൽ ഏരിയ ഫിക്സഡ് ആണ് പക്ഷേ ഇവിടെ അങ്ങനെയൊന്നുമില്ല ഓരോ ബ്ലോക്കിനും നിശ്ചിത ഉയരവും നിശ്ചിത വീതിയും ഉണ്ട് എല്ലാം അന്തിമമാക്കിയിട്ടുണ്ട് കൂടാതെ മൊഡ്യൂളുകൾക്ക് പിന്നുകളുടെ നിശ്ചിത സ്ഥാനമുണ്ട് ഇതിനുപുറമെ നിങ്ങൾക്ക് ഒരു നെറ്റ് ലിസ്റ്റ് ഉണ്ട് അത് ഏത് പിൻ കണക്റ്റുചെയ്യുന്നു എന്നത് നെറ്റ് ലിസ്റ്റ് ആവശ്യകതയാണ് ആദ്യത്തേത് വ്യക്തമാണ് നിങ്ങൾ എല്ലാ മൊഡ്യൂളുകളും സിലിക്കൺ ഫ്ലോറിൽ സ്ഥാപിക്കണം ലൊക്കേഷനുകൾ നിർണ്ണയിക്കുക വ്യക്തമായും 2 മൊഡ്യൂളുകൾ ഓവർലാപ്പ് ചെയ്യരുത് രണ്ടാമതായി പ്ലേസ്മെന്റ് റൂട്ടബിൾ ആണ് അപ്പോൾ റൂട്ടബിൾ എന്നതുകൊണ്ട് എന്താണ് അർത്ഥമാക്കുന്നത് ഇതിനർത്ഥം നിങ്ങൾ ബ്ലോക്കുകൾ സ്ഥാപിക്കുമ്പോൾ ഇടയ്ക്ക് മതിയായ ഇടം നിലനിർത്തണം എന്നാണ് നിങ്ങളുടെ പരസ്പരബന്ധം സാധ്യമാകുന്ന വിധത്തിൽ നിങ്ങൾ മതിയായ ഇടം നിലനിർത്തണം അതിനാൽ ബ്ലോക്കുകൾക്കിടയിൽ ഇടം ഉണ്ടായിരിക്കണം ഫ്ലോർ പ്ലാനിംഗിൽ നിന്ന് വ്യത്യസ്തമായി ബ്ലോക്കുകൾ പരസ്പരം സ്പർശിക്കുന്നതായി നിങ്ങൾ കാണിക്കുന്നു പക്ഷേ പ്ലെയ്സ്മെന്റിൽ നമ്മൾ ബ്ലോക്കുകൾ പരസ്പരം സ്പർശിക്കുന്നുവെന്ന് കാണിക്കുന്നില്ല നമ്മൾ ഇടയിൽ കുറച്ച് മതിയായ ഇടം നിലനിർത്തുന്നു അതിലൂടെ പരസ്പരബന്ധങ്ങൾ സ്ഥാപിക്കാൻ കഴിയും അതിനാൽ ലക്ഷ്യങ്ങൾ ഒന്നിലധികം ആകാം ലേ ഔട്ട് ഏരിയ കുറയ്ക്കുന്നത് തീർച്ചയായും ഒന്നാണ് ഹൈ പെർഫോമൻസ് സർക്യൂട്ടുകൾ ഡിലെ കുറയ്ക്കുന്നു അതായത് ക്രിട്ടിക്കൽ നെറ്റുകളുടെ നീളം പ്രധാനമാണ് മൂന്നാമത്തേത് വളരെ പ്രധാനപ്പെട്ട ഒരു പ്രശ്നമാണ് നിങ്ങൾക്ക് വളരെ നല്ലൊരു പ്ലെയ്സ്മെന്റ് ഉണ്ടെന്ന് നിങ്ങൾ കാണുന്നു എന്നാൽ റൂട്ടിംഗിന്റെ ഈ തുടർന്നുള്ള ഘട്ടത്തിൽ ചില നെറ്റുകൾ നിങ്ങൾക്ക് റൂട്ട് ചെയ്യാൻ കഴിയില്ലെന്ന് കണ്ടെത്തിയേക്കാം കാരണം നിങ്ങൾക്ക് ലൈനുകൾ വരയ്ക്കാൻ മതിയായ ഇടമില്ല അതിനാൽ പ്ലെയ്സ്മെന്റ് പ്രശ്നം റൂട്ടിംഗ് പൂർത്തീകരണം ഉറപ്പുനൽകുന്നുണ്ടെന്ന് ഉറപ്പുവരുത്തണം പക്ഷേ ഈ ഘട്ടത്തിൽ ഈ റൂട്ടിംഗ് ഗ്യാരണ്ടി പൂർത്തിയാക്കുന്നത് എല്ലായ്പ്പോഴും നൽകാനാകില്ല പക്ഷേ നിങ്ങൾക്ക് എല്ലായ്പ്പോഴും ഒരു നല്ല ഗസ്സ് ഉണ്ടാക്കാം റൂട്ടിംഗ് ചെയ്യാൻ കഴിയുമെന്ന് നിങ്ങൾക്ക് തോന്നുന്നുവെങ്കിൽ നിങ്ങൾക്ക് മതിയായ ഇടം നിലനിർത്താൻ കഴിയും എന്ന് ഞാൻ നിങ്ങളെ അർത്ഥമാക്കുന്നു എന്നാൽ പിന്നീട് സംഭവിക്കാനിടയുള്ളത് നിങ്ങൾക്ക് ചില ബ്ലോക്കുകൾ ചുറ്റിക്കറങ്ങേണ്ടി വന്നേക്കാം അതിനാൽ റൂട്ടിംഗിന് ശേഷം ചില നെറ്റുകൾ നിങ്ങൾക്ക് റൂട്ട് ചെയ്യാൻ കഴിയുന്നില്ലെന്ന് നിങ്ങൾക്ക് കാണാം നിങ്ങൾക്ക് വീണ്ടും പ്ലേസ്മെന്റിലേക്ക് തിരികെ വരാം ചില സെല്ലുകൾ നീക്കുക കൂടുതൽ ഇടം ഉണ്ടാക്കുക തിരികെ പോകുക തുടർന്ന് റൂട്ടിംഗ് പൂർത്തിയാക്കുക ആളുകൾ ഉപയോഗിക്കുന്ന ചില സാങ്കേതിക വിദ്യകളാണത് ഇപ്പോൾ ഈ പ്ലേസ്മെന്റ് പ്രശ്നം അബ്സ്ട്രക്ഷന്റെ വിവിധ തലങ്ങളിൽ പരിഗണിക്കാവുന്നതാണ് നിങ്ങളുടെ സിസ്റ്റത്തിൽ നിരവധി ബോർഡുകളോ പ്രിന്റഡ് സർക്യൂട്ട് ബോർഡുകളോ അടങ്ങിയിരിക്കുന്ന സിസ്റ്റം ലെവലിൽ പിസിബികൾ നിങ്ങൾ അവ നിർമ്മിക്കുമ്പോഴെല്ലാം പറയുന്നതുപോലെ നമ്മൾ നേരത്തെ ഡെസ്ക്ടോപ്പുകളെക്കുറിച്ചാണ് സംസാരിക്കുന്നത് നമ്മുടെ ഡെസ്ക്ടോപ്പുകളെ എങ്ങനെ ചെറുതാക്കാം ഇപ്പോൾ നിങ്ങൾ നമ്മുടെ ലാപ്ടോപ്പുകളെക്കുറിച്ച് ചിന്തിക്കുന്നു നമ്മുടെ ലാപ്ടോപ്പുകളെ എങ്ങനെ ചെറുതും മെലിഞ്ഞതുമാക്കാം അത് കനംകുറഞ്ഞതും നേർത്തതും ചെറുതുമായി മാറുന്നു നിങ്ങൾ ലാപ്ടോപ്പ് തുറക്കുമ്പോൾ ഡിസൈനിന്റെ ആസൂത്രണത്തിലേക്ക് പോകുന്ന അളവിനെയും എഞ്ചിനീയറിംഗിനെയും നിങ്ങൾക്ക് ശരിക്കും അഭിനന്ദിക്കാൻ കഴിയും അവർ എങ്ങനെ നിർമ്മിച്ചു എന്നത് ചെറുതാണ് നിങ്ങൾക്ക് അത് ശരിക്കും കാണാൻ കഴിയും അതിനാൽ സിസ്റ്റം ലെവൽ പ്ലെയ്സ്മെന്റ് ബോർഡുകൾ ഒരുമിച്ച് സ്ഥാപിക്കുന്നത് മൊത്തം വിസ്തീർണ്ണം ഏറ്റവും കുറവുള്ളതാണ് കൂടാതെ ഹീറ്റ് ഡിസിപ്പേഷൻ അതിരുകൾക്കപ്പുറത്തേക്ക് പോകുന്നില്ല ഇവ രണ്ടും വളരെ പ്രധാനമാണ് കാരണം സിസ്റ്റങ്ങൾക്ക് ചില കൂളിംഗ് മെക്കാനിസങ്ങളും ചില കൂളിംഗ് ഫാനുകളും കൂടുതൽ സങ്കീർണ്ണമായ വഴികളുമുണ്ടാകും അതിനാൽ എന്റെ വായു തണുപ്പിക്കുകയോ വെള്ളം തണുപ്പിക്കുകയോ ചെയ്തു ദ്രാവകം തണുത്തു നിങ്ങൾക്ക് ചൂട് വിനിയോഗിക്കാൻ സിസ്റ്റങ്ങളെ തണുപ്പിക്കാൻ കഴിയുന്ന വ്യത്യസ്ത വഴികളുടെ എണ്ണം അതുപോലെ ഒരു ബോർഡിനുള്ളിൽ നിങ്ങൾക്ക് ചിപ്പുകളെക്കുറിച്ച് ചിന്തിക്കാം ചിപ്സ് എങ്ങനെ സ്ഥാപിക്കാം സാധാരണ ഒരു PCB നോക്കുക നിങ്ങളുടെ ഏരിയ നിശ്ചിതമാണ് കാരണം നിങ്ങൾ ഒരു PCB രൂപകൽപ്പന ചെയ്യുന്നത് a ക്കുവേണ്ടി ഉദാഹരണത്തിന് ഒരു പ്രത്യേക ഡെസ്ക്ടോപ്പ് ബോക്സിന്റെ ആകെ വലിപ്പം എന്താണെന്ന് നിങ്ങൾക്കറിയാം നിങ്ങളുടെ PCB അതിനെക്കാൾ വലുതാകില്ല അതിനാൽ നിങ്ങളുടെ ഏരിയ സാധാരണയായി മുമ്പായി അറിയപ്പെടുന്നതും എല്ലാ ചിപ്പുകളും മൊഡ്യൂളുകൾ അല്ലെങ്കിൽ ചതുരാകൃതിയിലുള്ള ആകൃതിയാണ് അതിനാൽ പിസിബിയിലെ റൂട്ടിംഗ് ലെയറുകളുടെ എണ്ണം കുറയ്ക്കുക എന്നതാണ് ലക്ഷ്യം കൂടാതെ റൂട്ടിംഗ് കണക്കുകൂട്ടാൻ മെറ്റൽ ലയറുകൾ പ്രവർത്തിപ്പിക്കുന്ന ഒന്നിലധികം ലയറുകൾ ഉണ്ട് ഇപ്പോൾ ലെയറുകളുടെ എണ്ണം കുറയുന്നു പിസിബിയുടെ വില കുറവായിരിക്കും കൂടുതൽ പ്രവർത്തനത്തിന്റെ വിശ്വാസ്യത ഉണ്ടായിരിക്കും അതിനാൽ ലെയറുകളുടെ എണ്ണം കുറയ്ക്കുകയും ഡിലേയുടെ അടിസ്ഥാനത്തിൽ സിസ്റ്റം പ്രകടന ആവശ്യകതകൾ നിറവേറ്റുകയും ചെയ്യേണ്ടത് പ്രധാനമാണ് ശരി നിങ്ങൾ ചിപ്പ് ചിപ്പ് ലെവൽ പ്ലെയ്സ്മെന്റ് എന്നിവയ്ക്കുള്ളിൽ പോയാൽ മൊഡ്യൂളുകളെക്കുറിച്ചും ബ്ലോക്കുകളെക്കുറിച്ചും സംസാരിച്ചു അതിനാൽ മിക്ക ചിപ്പ് ലെവൽ പ്ലെയ്സ്മെന്റുകൾക്കും പിൻ അസൈൻമെന്റ് ഉപയോഗിച്ചാണ് ഫ്ലോർ പ്ലാനിംഗും പ്ലെയ്സ്മെന്റും നടത്തുന്നത് കാരണം ഞാൻ തുടക്കത്തിൽ പറഞ്ഞതുപോലെ നിങ്ങൾ ഇന്ന് നിർമ്മിക്കുന്ന മിക്ക ചിപ്പുകളും അവർ ഈ സ്റ്റാൻഡേർഡ് സെൽ ഡിസൈൻ ശൈലി ഉപയോഗിക്കുന്നു ഒരു സ്റ്റാൻഡേർഡ് സെൽ ഡിസൈൻ ശൈലിയിൽ ഫ്ലോർ പ്ലാനിംഗും പ്ലെയ്സ്മെന്റും 2 പ്രത്യേക ഘട്ടങ്ങളായിരിക്കണമെന്നില്ല കാരണം ഒരു ഫ്ലോർ പ്ലാനിംഗ് നടത്തുമ്പോഴെല്ലാം നിങ്ങൾ പ്ലേസ്മെന്റ് ചെയ്യുന്നു എന്നാണ് അർത്ഥമാക്കുന്നത് കാരണം നിങ്ങളുടെ ഫ്ലോർ നിയന്ത്രിതമാണ് നിങ്ങളുടെ ചിപ്പ് ഏരിയ നിങ്ങൾ കാണുന്നു എന്നാണ് ഫ്ലോർ എന്താണ് ഫുൾ കസ്റ്റം ഡിസൈനിനായി നിങ്ങളുടെ മുഴുവൻ സിലിക്കൺ സർഫേസ് ഒരു ഫ്ലോർ ആണ് എന്നാൽ സ്റ്റാൻഡേർഡ് സെൽ ഡിസൈനിനായി നിങ്ങൾ ഫ്ലോർ ഡെഫനിഷൻ നിയന്ത്രിച്ചിരിക്കുന്നു അതിനാൽ നിങ്ങൾക്ക് സ്റ്റാൻഡേർഡ് സെല്ലുകളുടെ റോകളുണ്ട് ഇവയാണ് റോകളുടെ സ്ഥാനം അതിനാൽ ഇപ്പോൾ നിങ്ങളുടെ ഫ്ലോർ ഈ വരികളിലൊന്നിലേക്ക് പരിമിതപ്പെടുത്തിയിരിക്കുന്നു ഇപ്പോൾ നമുക്ക് ഇതുപോലുള്ള ഒരു രൂപമുണ്ടെന്ന് കരുതുക നിങ്ങൾ സ്ഥാപിക്കാൻ ആഗ്രഹിക്കുന്നു നിങ്ങൾക്ക് അത് ഇവിടെ അല്ലെങ്കിൽ ഇവിടെ അല്ലെങ്കിൽ ഇവിടെ വയ്ക്കാം നിങ്ങൾ ഇത് ഇവിടെ വയ്ക്കാൻ തീരുമാനിക്കുന്നുവെന്ന് കരുതുക ഇത് നിങ്ങളുടെ ഫ്ലോർ പ്ലാനിംഗും പ്ലേസ്മെന്റും ആണ് അതിനാൽ ഫ്ലോർ പ്ലാനിംഗും ഒരു സാധാരണ സെൽ ഡിസൈൻ പ്ലെയ്സ്മെന്റും തമ്മിൽ നിങ്ങൾക്ക് വേർതിരിച്ചറിയാൻ കഴിയില്ല കൂടാതെ റൂട്ടിംഗ് പാളികൾ പലപ്പോഴും പരിമിതമാണ് ഫാബ്രിക്കേഷൻ ടെക്നോളജിയിൽ വ്യത്യസ്ത മാർഗങ്ങളിലൂടെ നിങ്ങൾക്ക് വളരെ വലിയ പാളികൾ ഉണ്ടാകും പക്ഷേ കുറച്ചുകൂടി മികച്ചതും നിങ്ങൾക്ക് ബാഡ് പ്ലേസ്മെന്റ് ഉണ്ടെങ്കിൽ വ്യക്തമായും ഞാൻ നേരത്തെ സൂചിപ്പിച്ചിരുന്നു നിങ്ങൾക്ക് റൂട്ടിംഗ് പൂർത്തിയാക്കാൻ കഴിഞ്ഞേക്കില്ല അതിനാൽ നിങ്ങൾ വീണ്ടും മടങ്ങിവരേണ്ടിവരും ഡിസൈൻ ആവർത്തിക്കുക മാറ്റങ്ങൾ വരുത്തുക പക്ഷേ ഇത് നിങ്ങൾ ഡിസൈൻ സൈക്കിളിൽ ചില ചെലവേറിയ കാലതാമസങ്ങൾ അവതരിപ്പിച്ചേക്കാം അത് നിങ്ങൾക്ക് താൽപ്പര്യമില്ലായിരിക്കാം തീർച്ചയായും ഏരിയ കുറയ്ക്കുന്നത് പ്രധാനമാണ് അതിനാൽ ഇവ ചില പ്രശ്നങ്ങളാണ് ഇപ്പോൾ നമുക്ക് പ്രശ്ന രൂപീകരണത്തിലേക്ക് അല്പം വ്യത്യസ്തമായ കോണിൽ നിന്ന് നോക്കാം ഇപ്പോൾ ഇവിടെ നമ്മൾ പറയും ഇത് ഓരോ ബ്ലോക്കിലും ഉള്ള മൊഡ്യൂളുകളിലോ ബ്ലോക്കുകളിലോ B1 മുതൽ Bn വരെ ഉണ്ട് ഓരോ ബ്ലോക്കിനും പ്രത്യേക വീതിയും പ്രത്യേക ഉയരവും ഉണ്ട് നിങ്ങൾക്ക് N1 N2 Nm എന്നിവയുടെ ഒരു കൂട്ടം നെറ്റുകൾ കാണുക നെറ്റ് ലിസ്റ്റ് എന്താണ് ഞാൻ ഉദ്ദേശിക്കുന്നത് ഇതുപോലെയാണ് ഞാൻ ചിത്രീകരിക്കാൻ ശ്രമിക്കാം എനിക്ക് ഇവിടെ ഒരു ബ്ലോക്ക് ബി 1 ഉണ്ടെന്ന് പറയട്ടെ B1 B2 B3 എന്നീ 3 ബ്ലോക്കുകൾ ഉപയോഗിച്ച് ഞാൻ വിശദീകരിക്കാം അതിനാൽ എനിക്ക് വീതിയും ഉയരവും അറിയപ്പെടുന്ന 3 ബ്ലോക്കുകൾ ഉണ്ട് ഇത് 2 ഉം 2 ഉം ആണെന്ന് കരുതുക ഇത് 3 ഉം 2 ഉം ആണ് ഇത് 3 ഉം 3 ഉം ആണ് അതിനാൽ വീതിയും ഉയരവും അറിയപ്പെടുന്നു ഇപ്പോൾ ചില പിന്നുകൾ ഉണ്ട് ഈ ബ്ലോക്ക് 1 ന് കുറച്ച് പിന്നുകൾ ഉണ്ടെന്ന് പറയട്ടെ നമുക്ക് ചില പേരുകൾ നൽകാം 3 പിൻസ് പറയട്ടെ ഓരോന്നും നമുക്ക് ഉദാഹരണം എടുക്കാം നമുക്ക് ഈ ഓരോ പിന്നിനും ചില പേരുകൾ നൽകാം abcdefgh പിന്നെ ഞാൻ നെറ്റുകൾ N1 നിങ്ങളോട് പറയുന്നു എന്ന് പറയട്ടെ a e i അവ ബന്ധിപ്പിക്കണം അതായത് a e i എന്നിവ ഒരു വലയിൽ പെടുന്നു ഈ N2 ഈ f ഉം g ഉം കണക്ട് ചെയ്യണമെന്ന് പറഞ്ഞേക്കാം ഈ N3 b d h എന്നിവ കണക്റ്റുചെയ്യണം എന്നും പറഞ്ഞേക്കാം നെറ്റുകൾ ഈ രീതിയിൽ വ്യക്തമാക്കിയിരിക്കുന്നു നെറ്റുകൾ അർത്ഥമാക്കുന്നത് 2 ടെർമിനൽ നെറ്റുകൾ ആയിരിക്കണമെന്നില്ല അവ മൾട്ടി ടെർമിനൽ നെറ്റുകൾ ആകാം വയർ a മുതൽ e വരെ e മുതൽ i വരെ ഒന്നിച്ച് ബന്ധിപ്പിക്കണം അങ്ങനെ വീണ്ടും തിരിച്ചുവരുന്നു അതിനാൽ എനിക്ക് ഒരു കൂട്ടം ബ്ലോക്കുകൾ ഉണ്ട് എനിക്ക് വീതിയും ഉയരവും ഉണ്ട് എനിക്ക് ഒരു കൂട്ടം നെറ്റുകൾ ഉണ്ട് റൂട്ടിംഗിനായി എനിക്ക് ഒരു കൂട്ടം ശൂന്യമായ ഇടങ്ങളുണ്ട് അതിനാൽ റൂട്ടിംഗിനുള്ള ശൂന്യമായ ഇടങ്ങൾ നെറ്റ് Ni യുടെ റൂട്ടിംഗിന്റെ കണക്കാക്കിയ ദൈർഘ്യം സൂചിപ്പിക്കുന്ന ഒരു വേരിയബിൾ എനിക്ക് ഉണ്ട് ഞാൻ പറയട്ടെ ആദ്യത്തെ നെറ്റ് aei എന്ന് പറയട്ടെ അതിനാൽ a ഇവിടെയുണ്ട് e ഇവിടെയുണ്ട് i ഇവിടെയുണ്ട് അതിനാൽ a e യുമായി ബന്ധിപ്പിക്കേണ്ടതുണ്ടെന്ന് പറയട്ടെ എനിക്ക് എനിക്ക് കണക്റ്റുചെയ്യാനാകും എനിക്ക് ബന്ധിപ്പിക്കാൻ കഴിയും കൂടാതെ എനിക്ക് ഏതെങ്കിലും മധ്യ പോയിന്റിലേക്ക് കണക്റ്റുചെയ്യാനാകും ഞാൻ a യിൽ നിന്ന് i യിലേക്ക് കണക്റ്റുചെയ്യുന്നുവെന്ന് പറയുക അതിനാൽ ഇത് ബന്ധിപ്പിക്കുന്നതിനുള്ള ഒരു മാർഗമാണ് അതിനാൽ അവയെ ബന്ധിപ്പിക്കുന്നതിനുള്ള ഒരു തന്ത്രം നമ്മൾ കണ്ടെത്തിയാൽ ഈ നെറ്റ് 1 L1 ന്റെ ദൈർഘ്യം ഞാൻ കണക്കാക്കും അതിനാൽ ഈ ഘട്ടത്തിൽ ഓരോ നെറ്റിന്റേയും നീളം നമുക്ക് നന്നായി കണക്കാക്കാൻ കഴിയുമെന്ന് നമുക്ക് പിന്നീട് കാണാം കൂടാതെ ഈ Qi നമുക്കുണ്ട് അതായത് റൂട്ടിംഗിനായി അവശേഷിക്കുന്ന റെക്ടാങ്കിൾ എംപ്റ്റി സ്പേസസ് നിങ്ങൾ ബ്ലോക്കുകൾ സ്ഥാപിക്കുമ്പോഴെല്ലാം അവ ഇതുപോലെ സ്ഥാപിക്കാൻ ഞാൻ നേരത്തെ സൂചിപ്പിച്ചിരുന്നു എന്നാണ് അർത്ഥമാക്കുന്നത് അതിനാൽ ഇത് നിങ്ങളുടെ എംപ്റ്റി സ്പേസ് Q1 ആകാം ഇത് മറ്റൊരു സ്ഥലം Q2 ആകാം ഇത് Q3 ആകാം അതുപോലെ ഈ ഭാഗത്ത് ഇത് Q4 ആകാം അതിനാൽ പരസ്പരം ബന്ധിപ്പിക്കുന്ന ടെർമിനലുകൾക്കായി റൂട്ടിംഗിനായി ഈ ഇടങ്ങൾ ഇതിനകം തന്നെ സൂക്ഷിച്ചിട്ടുണ്ട് അതിനാൽ ഇപ്പോൾ നമ്മൾ ഞാൻ പ്രശ്നങ്ങളെക്കുറിച്ച് സംസാരിക്കുമ്പോൾ റെക്ടാങ്കുലർ റീജിയൻ ഓരോ ബ്ലോക്കുകൾക്കും ചില റെക്ടാങ്കുലർ റീജിയൻ കണ്ടെത്തേണ്ടതുണ്ട് Ri മേഖലയിൽ ബ്ലോക്ക് Bi സ്ഥാപിക്കാനാകും ഇവിടെ നമ്മൾ പറയുന്നത് എന്താണ് ഞാൻ ബ്ലോക്ക് Bi മാറ്റി സ്ഥാപിക്കാവുന്ന ചില റെക്ടാങ്കുലർ റീജിയൻ നമ്മൾ തിരിച്ചറിയണം ഇത് പറയുന്നത് ഒരു ഗണിതശാസ്ത്ര രീതിയാണ് എന്നാൽ യഥാർത്ഥത്തിൽ ഈ Ri ഒരു സ്പേസ് ഹോൾഡർ ആണ് ഇത് നിങ്ങൾ ബ്ലോക്ക് 1 സ്ഥാപിക്കുന്ന നിങ്ങളുടെ R1 ആണ് നിങ്ങൾ ബ്ലോക്ക് ബി 1 സ്ഥാപിക്കുന്ന ഒന്ന് ഇതിനർത്ഥം ഒന്നുതന്നെയാണ് അതിനാൽ വ്യക്തമായും രണ്ട് ദീർഘചതുരങ്ങൾ ഓവർലാപ്പ് ചെയ്യുമെന്ന് അറിയുക ഈ പ്ലേസ്മെന്റ് റൂട്ടബിൾ ആയിരിക്കും പ്ലെയ്സ്മെന്റ് റൂട്ടബിൾ എന്നാൽ നിങ്ങൾ സൂക്ഷിച്ചിരിക്കുന്ന സ്ഥലത്തിന്റെ അളവ് Q1 Q2 Q3 മതി ചതുരാകൃതിയിലുള്ള R Q എന്നിവയുടെ ആകെ വിസ്തീർണ്ണം R എന്നത് ബ്ലോക്കുകൾ മാറ്റിസ്ഥാപിക്കുന്ന മേഖലയാണ് Q എന്നത് റൂട്ടിംഗിനായി നിങ്ങൾ സൂക്ഷിച്ചിരിക്കുന്ന മേഖലയാണ് അതിനാൽ R ഉം Q ഉം ചേർന്നത് ചിപ്പിന്റെ ആകെത്തുകയുമായി യോജിക്കും അതിനാൽ R Q എന്നിവയുമായി ബന്ധിപ്പിക്കുന്ന ദീർഘചതുരത്തിന്റെ മൊത്തം വിസ്തീർണ്ണം കുറയ്ക്കേണ്ടതുണ്ട് നമ്മൾ പറഞ്ഞ മൊത്തം വയർ ലെങ്ത് നമ്മൾ ഒരു എസ്റ്റിമേറ്റ് ഉണ്ടാക്കണം ഉയർന്ന പെർഫോമൻസ് സർക്യൂട്ടിനായി നിങ്ങൾ ഡിലെ പരിമിതപ്പെടുത്തണം പരമാവധി വയർ നീളവും പരിധിക്കുള്ളിൽ സൂക്ഷിക്കേണ്ടതുണ്ട് ഇപ്പോൾ പൊതുവായ പ്രശ്നം വളരെ ബുദ്ധിമുട്ടുള്ള കണക്കുകൂട്ടൽ സങ്കീർണ്ണമാണ് കൂടാതെ വളരെ സങ്കീർണ്ണമായ സർക്യൂട്ടുകൾക്ക് നന്നായി പ്രവർത്തിക്കുന്ന നിരവധി ഹ്യൂറിസ്റ്റിക്സ് ലഭ്യമാണ് അതിനാൽ ഞാൻ കാണിക്കുന്ന മറ്റൊരു ഉദാഹരണം ഇവിടെയുണ്ട് ചില പിനുകളുള്ള നിരവധി ബ്ലോക്കുകൾ ഉള്ള ഒരു ഡയഗ്രം ഞാൻ ഇവിടെ കാണിക്കുന്നു ഇവിടെ 1 1 1 എന്നീ സംഖ്യകളുള്ള പിന്നുകൾ അർത്ഥമാക്കുന്നത് അവയെല്ലാം ഒരേ നെറ്റിൽ പെടുന്നു എന്നാണ് 2 2 2 എന്നാൽ അവർ ഒരേ നെറ്റിൽ പെടുന്നു എന്നാണ് പിൻ കണക്ഷനുകൾ നേർരേഖകൾ കാണിക്കുന്നിടത്ത് ഞാൻ കാണിക്കുന്ന 2 ഇതര പ്ലെയ്സ്മെന്റുകൾ ഇത് എത്ര സങ്കീർണ്ണമാണെന്ന് കാണാൻ ഇത് ഒരു നല്ല പ്ലെയ്സ്മെന്റുമായി യോജിക്കുന്നു ഈ ക്രമം ധാരാളം സിഗ്സാഗും നീണ്ട കണക്ഷനുകളും ഇത് ബാഡ് പ്ലേസ്മെന്റായി കണക്കാക്കാം വ്യക്തമായും നമുക്ക് ഒരു ഗുഡ് പ്ലെയ്സ്മെന്റ് ഉണ്ടെങ്കിൽ റൂട്ടിംഗിന്റെ നിങ്ങളുടെ തുടർന്നുള്ള ഘട്ടം എളുപ്പമായിരിക്കും എന്ന് നിങ്ങൾക്ക് തോന്നാം ഇപ്പോൾ ഞാൻ പറഞ്ഞതുപോലെ ഒരു സുപ്രധാന ഘട്ടം പ്ലേസ്മെന്റ് സമയത്ത് നിങ്ങൾ ബ്ലോക്കുകൾ സ്ഥാപിക്കുകയോ ബ്ലോക്കുകൾ സ്ഥാപിക്കാൻ തീരുമാനിക്കുകയോ ചെയ്യുമ്പോൾ നിങ്ങൾ പരസ്പരബന്ധത്തിന്റെ ദൈർഘ്യം കണക്കാക്കേണ്ടതുണ്ട് കാരണം ഈ Li Li വളരെ പ്രധാനമാണ് Li ചെറുതാക്കുന്നു ഏറ്റവും ദൈർഘ്യമേറിയ Li കുറയ്ക്കുന്നത് രണ്ടും ഒരുപോലെ പ്രധാനമാണ് അതിനാൽ നിങ്ങൾ ഇന്റർ കണക്ഷനുകളുടെ ദൈർഘ്യത്തെക്കുറിച്ച് ഒരു നല്ല എസ്റ്റിമേറ്റ് തയ്യാറാക്കേണ്ടതുണ്ട് ഇതിനായി ചില ഇന്റർകണക്ഷൻ ടോപ്പോളജികൾ അനുമാനിക്കേണ്ടതുണ്ട് പ്ലേസ്മെന്റ് സമയത്ത് യഥാർത്ഥ വ്യത്യസ്ത പാതകൾ അറിയില്ല അതിനാൽ ചില പ്ലെയ്സ്മെന്റ് അൽഗോരിതം കണക്കാക്കുന്നതിന് ഇന്റർ കണക്ഷൻ നെറ്റ്സിന്റെ ടോപ്പോളജി മാതൃകയാക്കേണ്ടതുണ്ട് അതിനാൽ അത്തരം നിരവധി ഇന്റർകണക്ഷൻ ഗ്രാഫ് ഘടനകൾ നമുക്ക് കാണാം വെർടിസിസ് ടെർമിനലുകളും എഡ്ജസ് കണക്ഷനുകളെയും സൂചിപ്പിക്കുന്നിടത്ത് അതിനാൽ വയർ ദൈർഘ്യം കണക്കാക്കുന്നത് ആ ഗ്രാഫ് ഘടന ഉപയോഗിച്ചാണ് അതിനാൽ ഇത് വളരെ പ്രധാനപ്പെട്ടതാണ് നമുക്ക് നോക്കാം 2 ടെർമിനൽ നെറ്റുകൾക്കുള്ള ഒരു കാര്യം ലളിതമായ മാൻഹട്ടൻ ഡിസ്റ്റൻസ് ഒരു എസ്റ്റിമേറ്റായി ഉപയോഗിക്കുന്നു അപ്പോൾ ഞാൻ പറഞ്ഞതുപോലെ മാൻഹട്ടൻ ഡിസ്റ്റൻസ് എന്താണ് കോർഡിനേറ്റ് x1 y1 എന്നിവ ഉപയോഗിച്ച് നിങ്ങൾക്ക് ഒരു പോയിന്റ് ഉണ്ടെങ്കിൽ x2 y2 എന്ന് പറയുന്ന y കോർഡിനേറ്റുള്ള മറ്റൊരു പോയിന്റ് നിങ്ങൾക്ക് ഇത് നേരിട്ട് എടുക്കാം അതിനാൽ മൊത്തം നീളം എത്രയായിരിക്കും y1− y2 x1 − x2 അതിൽ ചിലത് അതിനാൽ അത് പരാമർശിക്കപ്പെടുന്നു അതിനാൽ 2 ടെർമിനൽ നെറ്റുകൾക്കായി നിങ്ങൾ മാൻഹട്ടൻ ഡിസ്റ്റൻസ് എടുക്കുകയാണെങ്കിൽ വയർ ലെങ്ത് ഇത് ലളിതമായിരിക്കും പക്ഷേ ഒരു ജനറൽ മൾട്ടി ടെർമിനൽ നെറ്റുകൾ എങ്ങനെയാണ് കണക്കാക്കേണ്ടത് അതാണ് ഇവിടെ പ്രധാന കാര്യം ഇപ്പോൾ ഈ കണക്കുകൂട്ടൽ നടത്തുന്നതിനുള്ള സംവിധാനം വേഗത്തിലായിരിക്കണം കൂടാതെ ഗുണനിലവാരവും നല്ലതായിരിക്കണം അത് വളരെ മോശമായ ഒരു കണക്ക് ആയിരിക്കരുത് അത് ന്യായമായ ഒരു നല്ല എസ്റ്റിമേറ്റ് ആയിരിക്കണം അതിനാൽ ഞാൻ നിരവധി ബദലുകൾ കാണിക്കുന്നു ആദ്യം ഒരു പൂർണ്ണ ഗ്രാഫ് ആണ് ഇവിടെ ഞാൻ ഒരു ഗ്രിഡിൽ കാണിക്കുന്നത് 4 പോയിന്റുകൾ പൂർണ്ണ ഗ്രാഫ് എന്നാൽ എല്ലാ വെർട്ടെക്സും മറ്റെല്ലാ വെർട്ടെക്സുമായി ബന്ധിപ്പിച്ചിരിക്കുന്നു അതിനാൽ n നോഡുകൾക്ക് അരികുകളുടെ എണ്ണം Cn2 അല്ലെങ്കിൽ n × n − 12 ആയിരിക്കും അതിനാൽ 4 ന് ഇത് 4 × 3−12 അല്ലെങ്കിൽ 6 ആയിരിക്കും 6 എഡ്ജുകളുണ്ട് അതിനാൽ നിങ്ങൾക്ക് ഇതുപോലുള്ള ഒരു സമ്പൂർണ്ണ ഗ്രാഫ് ഘടന ഉണ്ടെങ്കിൽ ഈ 6 അരികുകളുടെയും മാൻഹട്ടൻ ഡിസ്റ്റൻസിന്റെ ഒരു കണക്കുകൂട്ടൽ നടത്താം ഈ രണ്ടിനുമിടയിൽ ഇത് 1 2 3 4 5 6 ആയിരിക്കും ഇവയ്ക്കിടയിൽ 1 2 3 4 5 6 7 8 9 1 2 3 4 5 6 7 ആയിരിക്കും അതിനാൽ നിങ്ങൾക്ക് ആകെ തുക ചെയ്യാൻ കഴിയും എന്നാൽ ഒരു n ടെർമിനൽ നെറ്റിനായി നിങ്ങൾക്ക് കണക്ഷൻ ഉണ്ടാക്കാൻ n − 1 എഡ്ജുകൾ പോലെ ധാരാളം Cn2 എഡ്ജുകൾ ആവശ്യമില്ല 4 പോയിന്റുകൾക്ക് 3 വരികൾ മതി അതിനാൽ നിങ്ങൾ ഉപയോഗിക്കുന്നത് n2 കൂടുതൽ എണ്ണം അരികുകൾ n2 മടങ്ങ് കൂടുതൽ അരികുകൾ ആണ് അതിനാൽ നിങ്ങൾ ഈ തുക മൊത്തം എടുത്തതിനുശേഷം നിങ്ങൾ ഒരു നോർമലൈസഷൻ ഫാക്ടർ ആയി ആകെ തുക 2n കൊണ്ട് ഗുണിച്ചാൽ നിങ്ങൾക്ക് ഒരു എസ്റ്റിമേറ്റ് ലഭിക്കും ഇപ്പോൾ ഇവിടെ പ്രശ്നം ഈ Cn2 എഡ്ജുകൾക്കെല്ലാം ഒരു കണക്കുകൂട്ടൽ നടത്തണം എന്നതാണ് അതിനാൽ ഈ രീതിയിൽ കണക്കുകൂട്ടൽ സങ്കീർണ്ണത വളരെ ഉയർന്നതാണ് ഇത് ഒരു സമീപനമാണ് രണ്ടാമത്തെ സമീപനം മിനിമം സ്പാനിങ് ട്രീ ആണ് 4 പോയിന്റുകൾ ബന്ധിപ്പിക്കുന്നതിന് എനിക്ക് 3 അറ്റങ്ങൾ വേണം എന്ന് പറയുന്നത് ഇതാണ് ഇത് സാധ്യമായ ഒരു സ്പാനിങ് ട്രീ ആണ് മറ്റൊന്ന് ഇത് ഇത് ഇത് അല്ലെങ്കിൽ ഇത് കുറഞ്ഞത് ചില അരികുകളുടെ വീതികൾ ചുരുങ്ങിയത് മിനിമം സ്പാനിങ് ട്രീ എന്നാണ് ഇപ്പോൾ ഒരു സ്പാനിങ് ട്രീയിൽ അരികുകൾ വരയ്ക്കുന്നതിനുള്ള ശീർഷങ്ങളായി പിൻ സ്ഥാനങ്ങൾ മാത്രമേ നിങ്ങൾക്ക് ഉപയോഗിക്കാൻ കഴിയൂ അതിനാൽ ഇവിടെ 1 2 1 3 എന്നിവയുടെ വില എന്തായിരിക്കും ഇവിടെ 1 2 3 4 5 6 ഉം 3 ഉം 6 9 10 11 12 13 14 അതിനാൽ മിനിമം സ്പാനിങ് ട്രീയിൽ മൊത്തം ചെലവ് 14 ആണ് എന്നാൽ യഥാർത്ഥ ലേഔട്ടിനായി ഇതുപോലുള്ള നിങ്ങളുടെ ലേഔട്ട് ഇവിടെ നിങ്ങൾ കണക്ഷനുകൾ ഉണ്ടാക്കാൻ ലംബങ്ങൾ മാത്രമേ അനുവദിക്കുന്നുള്ളൂ എന്നാൽ ഇത്തരത്തിലുള്ള സ്റ്റെയ്നർ ട്രീ പറയുന്നു ഇവിടെ ഈ 2 പോയിന്റുകൾ നമ്മൾ ബന്ധിപ്പിച്ചിട്ടുള്ളതുപോലെ ഏത് ഭാഗത്തുനിന്നും ഒരു ശാഖയാക്കാം മറ്റ് പോയിന്റുകൾ ബന്ധിപ്പിക്കുന്നതിന് നിങ്ങൾ ഇവിടെ നിന്ന് ആരംഭിക്കേണ്ടതില്ല നിങ്ങൾക്ക് നടുവിലുള്ള ഏത് പോയിന്റിൽ നിന്നും ആരംഭിക്കാം അതിനാൽ ഇതിന് വളരെ ചെറിയ നീളം 1 2 3 4 5 6 7 8 9 10 11 12 കുറവായിരിക്കുമെന്ന് നിങ്ങൾ കാണുന്നു പക്ഷേ മിനിമം ലെങ്ത് സ്റ്റെയ്നർ ട്രീയിൽ കണക്കുകൂട്ടൽ ബുദ്ധിമുട്ടാണ് പക്ഷേ സ്വീകരിച്ച നിരവധി കണക്കുകളും ഹ്യൂറിസ്റ്റിക്സും ലഭ്യമാണ് അതിൽ നിങ്ങൾക്ക് ഒരു നല്ല സ്റ്റെയ്നർ ട്രീ ലഭിക്കും എന്നാൽ വളരെ പ്രചാരമുള്ള മറ്റൊരു ഏറ്റവും വേഗതയേറിയ മാർഗ്ഗം ഈ സ്മാലസ്റ് ബൌണ്ടിങ് റെക്ടാങ്കിൾ നിങ്ങൾ സങ്കൽപ്പിക്കുന്നു അത് എല്ലാ പിന്നുകളും ഉൾക്കൊള്ളുകയും വയർ ദൈർഘ്യം കണക്കാക്കുന്ന സെമി പെരിമീറ്റർ ഹെയ്റ് പ്ലസ് വിഡ്ത് എടുക്കുകയും ചെയ്യുന്നു തീർച്ചയായും യഥാർത്ഥ വയർ ലെങ്ത് എല്ലായ്പ്പോഴും ഇതിനേക്കാൾ വലുതായിരിക്കും ഇത് എല്ലായ്പ്പോഴും വയർ ലെങ്ത് കുറച്ചുകാണുന്നു പക്ഷേ ഇത് വളരെ വേഗത്തിലുള്ള എസ്റ്റിമേറ്റാണ് മാത്രമല്ല ഇത് ന്യായമായ ഒരു കണക്ക് നൽകുന്നു മാത്രമല്ല ഇത് വ്യാപകമായി വ്യതിചലിക്കുകയുമല്ല അതിനാൽ ഞാൻ ഇത് ആരംഭിക്കുന്നു നമ്മൾ ഈ പ്രഭാഷണത്തിന്റെ അവസാനത്തിലേക്ക് വരുന്നു അടുത്ത പ്രഭാഷണത്തിൽ നമ്മൾ പ്ലേസ്മെന്റ് പ്രശ്നം തുടരും പ്ലേസ്മെന്റിനായി ഉപയോഗിക്കുന്ന ചില ഡാറ്റ ഘടനകളും ചില യഥാർത്ഥ അൽഗോരിതങ്ങളും നമ്മൾ നോക്കും